എല്ലാവർക്കും നമസ്കാരം സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള എൻ എൽ മൂക്ക് കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ആദ്യ ആഴ്ചയാണ് നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിലാണ് നമ്മൾ ഇപ്പോൾ ആരംഭിച്ചതേയുള്ളൂ ഈ മൊഡ്യൂളിൽ നമ്മൾ സോഫ്റ്റ് സ്കിൽസ് നോക്കാൻ പോകുന്നു എന്നാൽ കൃത്യമായി അത്തരം കഴിവുകളല്ല എന്നാൽ പിന്നെ ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുപോകാൻ പോകുന്നു ഈ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് നിങ്ങളെ തയ്യാറാക്കേണ്ടതുണ്ട് ഇത് കൂടുതലും ആസൂത്രണം ചെയ്യുന്നതിനെക്കുറിച്ചും സോഫ്റ്റ് സ്കിൽസ് ഉൾക്കൊള്ളുന്നതിനുള്ള തയ്യാറെടുപ്പിനെക്കുറിച്ചുമാണ് നിങ്ങളുടെ വ്യക്തിത്വം വികസിപ്പിക്കുന്നതിന് ഇത് ആവശ്യമാണ് ഇപ്പോൾ ഞാൻ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വീഡിയോ പൂർണ്ണമായും പരിശോധിച്ചിട്ടുണ്ടോ ഞാൻ ആവർത്തിക്കട്ടെ മുമ്പത്തെ വീഡിയോയുടെ ഹൈലൈറ്റുകൾ ഒരൊറ്റ സ്ലൈഡിൽ വളരെ വേഗത്തിൽ നൽകട്ടെ കഴിഞ്ഞ പ്രഭാഷണത്തിന്റെ ഹൈലൈറ്റുകൾ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ പഠനം യഥാർത്ഥത്തിൽ പെരുമാറ്റ പരിഷ്ക്കരണമാണെന്ന് ഞാൻ പ്രത്യേകം പരാമർശിച്ചു മറ്റൊന്നുമില്ല അത് നിങ്ങളുടെ പെരുമാറ്റത്തെ ബാധിക്കണം അത് നിങ്ങളുടെ പെരുമാറ്റത്തിൽ മെച്ചപ്പെട്ട മാറ്റം വരുത്തണം നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒന്നും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല ഈ കോഴ്സിൽ നിന്ന് പഠിക്കാനുള്ള ആഗ്രഹം നിങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട് നിങ്ങൾ സജീവമായിരിക്കണം നിങ്ങൾ വീഡിയോകൾ ഡൌൺലോഡ് ചെയ്യുകയും നോട്ടുകൾ കാണുന്നതിനും എടുക്കുന്നതിനും കൃത്യമായ സമയം സൃഷ്ടിക്കുകയും വേണം നിങ്ങൾ സ്വയം ചിന്തിക്കേണ്ടതുണ്ട് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി കോഴ്സ് ചർച്ച ചെയ്യേണ്ടതുണ്ട് തുടർന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് അവിടെയും അവിടെയും ആവശ്യമായ പെരുമാറ്റം വികസിപ്പിക്കാൻ കഴിയും കുറഞ്ഞത് എല്ലാ ആഴ്ചയും നിങ്ങൾ കുറച്ച് സ്വയം വിലയിരുത്തൽ നടത്തേണ്ടതുണ്ട് നിങ്ങൾ പരീക്ഷണാത്മക പഠനം നടത്തേണ്ടതുണ്ട് അതായത് നിങ്ങൾ കോഴ്സ് അനുഭവിക്കേണ്ടതുണ്ട് ഇത് കെട്ടിച്ചമച്ച് വീണ്ടും നിർമ്മിക്കുന്നത് പോലെയല്ല നിങ്ങൾ അനുഭവിക്കേണ്ടതുണ്ട് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ നിങ്ങൾക്ക് ആശങ്കയില്ലെങ്കിലും എല്ലാ ക്വിസുകളും അസൈൻമെന്റുകളും പരീക്ഷയും പരീക്ഷിച്ചുനോക്കിയാൽ മാത്രമേ പരീക്ഷണാത്മക പഠനം സാധ്യമാകൂ നിങ്ങൾ ഇത് ചെയ്യുകയും തുടർന്ന് അനുഭവിക്കുകയും തുടർന്ന് സ്വയം എങ്ങനെ വിലയിരുത്താമെന്നും തുടർന്ന് കോഴ്സിനൊപ്പം പുരോഗമിക്കാമെന്നും പഠിക്കേണ്ടത് പ്രധാനമാണ് വളരെ ഉപരിപ്ലവമായ ശാരീരിക തലത്തിൽ ലക്ഷ്യമിടുന്ന മറ്റ് കോഴ്സുകളെപ്പോലെ അല്ലാതെ നിങ്ങളുടെ പെരുമാറ്റം മാറ്റുകയാണ് കോഴ്സ് ലക്ഷ്യമിടുന്നത് ചില കോർപ്പറേറ്റ് ഓഫീസുകൾ ഉദ്യോഗാർത്ഥികളെ ഒരാഴ്ചയും 10 ദിവസവും മാത്രം പരിശീലിപ്പിക്കുകയും തുടർന്ന് സോഫ്റ്റ് സ്കിൽസിന്റെ കാര്യത്തിൽ സൌന്ദര്യവർദ്ധക സ്പർശങ്ങൾ നൽകുകയും ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ കോഴ്സ് ഒരു സമ്പൂർണ്ണ വ്യക്തിത്വ വികസനമാണ് ലക്ഷ്യമിടുന്നത് ശാരീരികവും മാനസികവും വൈകാരികവും ശാരീരികവും സാംസ്കാരികവും ശാരീരികവും ആത്മീയവുമായ തലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമഗ്ര സമീപനമാണ് സമീപനം ഈ കോഴ്സിന് രണ്ട് ഘട്ടങ്ങളുണ്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ആദ്യത്തേത് പരമ്പരയിലെ ആദ്യ കോഴ്സാണ് ഇത് സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുകയാണ് ഇത് വ്യക്തിപരവും തൊഴിൽപരവുമായ കഴിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഈ കോഴ്സിലേക്കുള്ള ക്രമം പിന്നീട് എടുക്കും അത് അടുത്ത കോഴ്സായിരിക്കും അത് സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും മെച്ചപ്പെടുത്തുന്നതിലായിരിക്കും അത് പരസ്പരവും മാനേജ്മെൻ്റ് കഴിവുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും ഇപ്പോൾ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു തുടർന്ന് മറ്റൊരു ചോദ്യത്തോടെ ഞാൻ ഈ മൊഡ്യൂൾ ആരംഭിക്കാം ദൈവം നിങ്ങൾക്ക് ഒരു ആഗ്രഹം നൽകുകയും ആ ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ എന്നെന്നേക്കുമായി സന്തോഷവും സമാധാനവും നൽകുകയും ചെയ്യുമെന്ന് നമുക്ക് പറയാം നിങ്ങൾക്ക് അത്തരമൊരു അവസരം നൽകിയാൽ നിങ്ങൾ അദ്ദേഹത്തോട് എന്താണ് ചോദിക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾ പണം ചോദിക്കുമോ നിങ്ങൾ ഇന്റലിജൻസ് ചോദിക്കുമോ നിങ്ങൾ അറിവ് ചോദിക്കുമോ നിങ്ങൾ നല്ല രൂപങ്ങൾ ചോദിക്കുമോ നിങ്ങൾ വളരെ സുന്ദരിയായ അല്ലെങ്കിൽ സുന്ദരനായ ഒരു ജീവിതപങ്കാളിയെ ആവശ്യപ്പെടുമോ അതിനെക്കുറിച്ച് ചിന്തിക്കുക ദൈവം നിങ്ങൾക്ക് ഒരു ആഗ്രഹം നൽകുന്നു നിങ്ങൾ ശരിയായ എന്തെങ്കിലും ചോദിച്ചാൽ അത് നിങ്ങൾക്ക് പൂർണ്ണമായ സന്തോഷവും സമാധാനവും നൽകും ആ ആഗ്രഹം എന്തായിരിക്കും ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം ധാരാളം സോഫ്റ്റ് കഴിവുകൾ ശേഖരിക്കുന്നതിന്റെ കാര്യത്തിൽ ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് നൽകണമെന്ന് നിങ്ങൾ ദൈവത്തോട് ആവശ്യപ്പെടണമെന്ന് അത് സോഫ്റ്റ് സ്കിൽസ് ആയിരിക്കണം എന്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സോഫ്റ്റ് സ്കിൽസും നേടാൻ കഴിയുമെങ്കിൽ അത് യഥാർത്ഥത്തിൽ ആളുകളുടെ നൈപുണ്യമാണ് ഞാൻ മുമ്പ് പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് നേടാൻ കഴിയും അത് പണമോ ബുദ്ധിയോ അറിവോ അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്തും ആകട്ടെ നിങ്ങൾക്ക് സോഫ്റ്റ് സ്കിൽസ് നേടാൻ കഴിയുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാം നേടാൻ കഴിയൂ അതിനാൽ വളരെ സന്തോഷകരവും സമാധാനപരവുമായ ജീവിതം നയിക്കാൻ ആവശ്യമായതെല്ലാം ഇത് നിങ്ങൾക്ക് നൽകും ഞാൻ പറഞ്ഞതുപോലെ സോഫ്റ്റ് സ്കിൽസ് ആളുകളുടെ കഴിവുകളാണ് വരുന്ന വീഡിയോകളിൽ സോഫ്റ്റ് സ്കിൽസിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകും ഇപ്പോൾ നിങ്ങളുടെ പെരുമാറ്റരീതി മാറ്റാൻ നിങ്ങൾ ആസൂത്രണം ചെയ്യുകയും തയ്യാറാകുകയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ കഴിവുകൾ മനസിലാക്കുകയും ഉൾക്കൊള്ളുകയും അതിനായി നിങ്ങളെ തയ്യാറാക്കുകയും ചെയ്യുക ഇപ്പോൾ ഓർക്കുക സോഫ്റ്റ് സ്കിൽസ് ആളുകളുടെ കഴിവുകളാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ വിജയത്തിനോ പരാജയത്തിനോ സംഭാവന ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളാണ് എങ്ങനെയെന്ന് ഞാൻ വിശദീകരിക്കാം നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ ടോപ്പർ ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ പരീക്ഷയിൽ 100 മാർക്ക് നേടാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയാം തുടർന്ന് അധ്യാപകൻ 100 മാർക്ക് നൽകുന്ന ഒരാൾ മാത്രമേയുള്ളൂ എന്ന് നമുക്ക് അനുമാനിക്കാം നിങ്ങൾക്ക് 100 മാർക്ക് ലഭിച്ചുവെന്നും നമുക്ക് അനുമാനിക്കാം ഇപ്പോൾ അത് നിങ്ങൾക്ക് 100 മാർക്ക് ലഭിച്ചതുകൊണ്ട് മാത്രമല്ല നിങ്ങൾ ക്ലാസിൽ ഒന്നാമതാണ് കാരണം അവരുടെ മനസ്സിൽ തീരുമാനമെടുത്ത മറ്റു പലരും ഉണ്ടെങ്കിൽ അവർക്ക് 99 കിട്ടിയാൽ മതി ചിലർ 90 മതിയാകുമെന്ന് കരുതി ചിലർ 80 മതിയാകുമെന്ന് കരുതി ചിലർ 60 ൽ താഴെയാണെന്ന് കരുതി ചിലർ പരീക്ഷ എഴുതാൻ പോലും മെനക്കെട്ടില്ല ഇപ്പോൾ ഈ ആളുകൾ ഒരുമിച്ച് നിങ്ങൾക്ക് ആ വിജയം നൽകി നിങ്ങളുമായി വേണ്ടത്ര മത്സരിക്കാതെ അവർ നിങ്ങളെ നിങ്ങളുടെ ക്ലാസിൽ ഒന്നാമതെത്തിച്ചു നിങ്ങൾക്ക് കടുത്ത മത്സരം നൽകാതിരിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള തരത്തിലുള്ള മത്സരം നൽകുന്നതിൽ നിങ്ങളെ മികച്ചതാക്കുന്നതിലൂടെയോ എന്നാൽ അതിനർത്ഥം ഏതെങ്കിലും വിജയം നേടുന്നതിന് നിങ്ങൾ മാത്രം അദ്വിതീയമായി ഉത്തരവാദിയാണെന്നല്ല പരാജയത്തിനും ഇത് ബാധകമാണ് നിങ്ങൾക്ക് ആളുകളുടെ കഴിവുകൾ കൈകാര്യം ചെയ്യാൻ കഴിയാത്തതിനാലാണിത് ചില സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയാത്തതിനാലാണിത് ആ പരിതസ്ഥിതിയിൽ മികച്ച മതിപ്പ് സൃഷ്ടിക്കുന്ന ആ സോഫ്റ്റ് കഴിവുകൾ നിങ്ങൾക്ക് ഇല്ലാത്തതിനാലാണിത് നിങ്ങൾ ഒരുപക്ഷേ പരാജയപ്പെട്ടേക്കാം ഇപ്പോൾ നിങ്ങളുടെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും എൺപത് ശതമാനവും ജീവിതത്തെയോ ബിസിനസ്സിനെയോ ആശ്രയിച്ചിരിക്കുന്നുവെന്നും പറയപ്പെടുന്നു നിങ്ങൾ പരമാവധി സമയം ചെലവഴിക്കുന്ന പങ്കാളിയെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾ വിവാഹിതനാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എൺപത് ശതമാനം സന്തോഷമോ സമാധാനമോ നിർണ്ണയിക്കാൻ പോകുന്നത് ഭാര്യയോ ഭർത്താവോ ആണ് നിങ്ങൾ വിവാഹിതനല്ലെങ്കിൽ നിങ്ങൾ ഒരു ബിസിനസ്സിലാണെങ്കിൽ നിങ്ങൾ ഒരു വർക്കഹോളിക് ആണെങ്കിൽ നിങ്ങൾ പരമാവധി സമയം ഓഫീസിൽ ചെലവഴിക്കുന്നു നിങ്ങൾ ആശയവിനിമയം നടത്തുന്നത് നിങ്ങളുടെ മേലധികാരിയാണ് നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെയോ സമാധാനത്തിൻ്റെയോ എൺപത് ശതമാനവും അവൻ നിർണ്ണയിക്കാൻ പോകുന്നു അതിനാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ജനങ്ങളാണ് അവരാണ് നിങ്ങളുടെ ജീവിതത്തിലെ പരമാവധി സന്തോഷമോ സമാധാനമോ നിർണ്ണയിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്ത കാര്യം ഈ ആളുകളുമായി ഇടപഴകുന്നതിലൂടെ ഈ സന്തോഷവും സമാധാനവും നേടാൻ നിങ്ങളെ എങ്ങനെ സഹായിക്കുന്നു എന്നതാണ് തുടർന്ന് അവരെ നിങ്ങളുടെ സന്തോഷത്തിനും സമാധാനത്തിനും സംഭാവന ചെയ്യാൻ പ്രേരിപ്പിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഐക്യവും സമാധാനവും കൊണ്ടുവരാൻ അവരുമായി എങ്ങനെ ഇടപഴകണമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നൽകാൻ അവരെ എങ്ങനെ പ്രേരിപ്പിക്കാമെന്ന് പഠിക്കുന്നതിന് മുമ്പ് ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ മാത്രമേ അത് നേടാൻ ആളുകളെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയൂ അതിനാൽ അത് ചെയ്യുന്നതിന് നിങ്ങൾ നിങ്ങളോട് കുറച്ച് കഥ പറയണമെന്നും തുടർന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ആ ദിശയിലേക്ക് നിങ്ങളുടെ മനസ്സ് രൂപപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു ഈ കോഴ്സിൽ ഞാൻ നിങ്ങളോട് ധാരാളം കഥകൾ പറയാൻ പോകുന്നു വാസ്തവത്തിൽ ഈ കോഴ്സ് പ്രവർത്തിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന രീതി നിങ്ങൾ ക്ലാസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതുപോലെ അതായത് നിങ്ങൾ വീഡിയോ ഡൌൺലോഡ് ചെയ്ത് കാണുക നിങ്ങൾക്ക് ചില കഥയുണ്ട് ഞാൻ വായിച്ച ഒന്ന് ചില എഴുത്തുകാരിൽ നിന്ന് ഞാൻ എടുത്ത ഒന്ന് എന്റെ ജീവിതത്തിൽ ഉപയോഗപ്രദമാണെന്ന് ഞാൻ കരുതുന്നു അത് ആണെന്ന് എനിക്കറിയാം ആ കഥയാണ് ഞാൻ പങ്കിടാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഞാൻ ഒരു കഥയോടെ ആരംഭിക്കാൻ പോകുന്നു ഈ കഥയിൽ നിങ്ങളാണ് പ്രധാന കഥാപാത്രം നിങ്ങളാണ് പ്രധാന കഥാപാത്രം കൂടാതെ കഥ ആരംഭിക്കുമ്പോൾ നിങ്ങൾ ഒരു വലിയ കൂട്ടം ആളുകളുമായി നടക്കുന്നു അവർ ഒരു ജനക്കൂട്ടത്തിലാണ് ഈ ജനക്കൂട്ടം നീങ്ങുന്നു ജനക്കൂട്ടം ചെറുതായി കരയുന്നതായി തോന്നുന്നു അവർ സന്തോഷകരമായ മാനസികാവസ്ഥയിലല്ല അവർ ഗൌരവമായ മാനസികാവസ്ഥയിലാണ് നിങ്ങൾ അതിന്റെ ഭാഗമാണ് തുടർന്ന് അവരെല്ലാം വളരെ ലളിതവും ശാന്തവുമായ നിറത്തിൽ വസ്ത്രം ധരിച്ചു അവരിൽ ചിലർ കറുപ്പിലും ചിലർ വെള്ളയിലും ചിലർ വളരെ ലളിതമായ വസ്ത്രത്തിലുമാണ് ഇത് ഒരു ശവസംസ്കാരം പോലെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നീട് ഇത് യഥാർത്ഥത്തിൽ ഒരു ശവസംസ്കാര ചടങ്ങാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു പിന്നെ എല്ലാവരും ശ്മശാനത്തിലേക്ക് നീങ്ങുന്നു നിങ്ങളും അവരോടൊപ്പം നടക്കുന്നു നിങ്ങൾ നടക്കുകയും തുടർന്ന് നിങ്ങളുടെ അടുത്തേക്ക് നീങ്ങുകയും ചെയ്യുമ്പോൾ അവിടെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ശവപ്പെട്ടി കാണാം നിങ്ങളുടെ ജിജ്ഞാസയിൽ നിന്ന് ആരാണെന്ന് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ശവപ്പെട്ടിയുടെ അടപ്പ് തുറന്നു തുടർന്ന് നിങ്ങൾ പെട്ടെന്നുതന്നെ ശവപ്പെട്ടിയിലേക്ക് തുറിച്ചുനോക്കുന്നു അപ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടുന്നു അല്ലെങ്കിൽ ശവപ്പെട്ടിക്കുള്ളിൽ നിങ്ങൾ കിടക്കുന്നു ശവപ്പെട്ടിക്കുള്ളിൽ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ മുഖമാണെന്ന് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകുന്നു നിങ്ങൾ കാണുന്ന നിമിഷം ശവപ്പെട്ടിയിലുള്ള ശരീരവുമായി നിങ്ങൾ ലയിക്കുന്നതായി തോന്നുന്നു നിങ്ങൾ അവിടെ ശവപ്പെട്ടിയിൽ കിടക്കുന്നു എന്നിട്ട് നിങ്ങൾ പുറത്തേക്ക് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും നാല് കൂട്ടം ആളുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു കൂട്ടം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ആണ് ശരി നിങ്ങളുടെ ബാല്യകാല സുഹൃത്ത് ജോലിസ്ഥലത്ത് നിന്നുള്ള നിങ്ങളുടെ സുഹൃത്ത് തുടർന്ന് നിങ്ങളുടെ അയൽപക്കത്ത് നിന്നുള്ള ഒരു സുഹൃത്ത് അതിനാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ മാത്രമായ ഒരു കൂട്ടം ആളുകളുണ്ട് പിന്നെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വരുന്ന മറ്റൊരു കൂട്ടം ഉണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ കസിൻസ് പിന്നെ നിങ്ങളുടെ ബന്ധുക്കൾ എന്നിവരെല്ലാം അവിടെയുണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന മറ്റൊരു മതവിഭാഗം ആളുകളുണ്ടെന്നും അല്ലെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിലോ പള്ളിയിലോ പള്ളിയിലോ പോകുമ്പോൾ നിങ്ങൾ പോയി ഈ ആളുകളെ പതിവായി കണ്ടുമുട്ടുന്നുവെന്നും നിങ്ങൾ കണ്ടെത്തുന്നു പിന്നെ നാലാമത്തെ കൂട്ടം ആളുകളും ഉണ്ട് അതിനാൽ അത് നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ടതാണ് അതാണ് നിങ്ങളുടെ ബോസ് ഇപ്പോൾ നിങ്ങൾ അവിടെയുണ്ട് ഈ ആളുകൾ നിങ്ങളെക്കുറിച്ച് ചില നല്ല കാര്യങ്ങൾ പറയാൻ പോകുന്നു അതോ അവർ ശരിക്കും നിങ്ങളെക്കുറിച്ച് ചില നല്ല കാര്യങ്ങൾ പറയുകയാണോ നിങ്ങൾക്ക് ജിജ്ഞാസയുണ്ട് അവർ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ അവരെ വളരെ തീക്ഷ്ണമായി കേൾക്കാൻ ശ്രമിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല ഇപ്പോൾ ഇതാണ് നിങ്ങൾക്ക് നൽകപ്പെട്ട ചുമതല ഇപ്പോൾ നിങ്ങൾ ശവപ്പെട്ടിയിൽ ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക നിങ്ങളുടെ ജീവിതം അവസാനിച്ചു നിങ്ങൾ ശവപ്പെട്ടിയിലാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനവും ഒരു മിനിറ്റും നിങ്ങൾ ആയിരിക്കും വെറുതെ കുഴിച്ചുമൂടുകയും തുടർന്ന് ആളുകൾ ആ സ്ഥലം വിടാൻ പോകുകയും ചെയ്യുന്നു ഒരു വശത്ത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാളുണ്ട് നിങ്ങളുടെ അച്ഛൻ അമ്മ സഹോദരൻ സഹോദരി നിങ്ങൾ വളരെ സ്നേഹിച്ചിരുന്ന ഒരാൾ മറുവശത്ത് അവിടെ ഈ ബോസ് ആണ് എന്നിട്ടും മറുവശത്ത് ഇത് ഉണ്ട് സുഹൃത്ത് പിന്നെ മറ്റൊരു വശമുണ്ട് മത സമൂഹത്തിൽ നിന്നുള്ള ഒരാൾ ഉണ്ട് അതിൽ നിങ്ങൾ ഉൾപ്പെടുന്നു ഇപ്പോൾ ചുമതല ഇതാണ് ഈ സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കുക ശാന്തമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക ഇത് ദൃശ്യവൽക്കരിക്കുക ഇത് എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയാത്തതിനാൽ ഒരു കടലാസ് കഷണം എടുക്കുക ആളുകൾ നിങ്ങളെക്കുറിച്ച് പറയുന്നു നിങ്ങൾ ഈ ആളുകൾക്ക് വേണ്ടി ഡയലോഗ് എഴുതുന്നു ഈ സുഹൃത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് പറയാൻ പോകുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾ സങ്കൽപ്പിക്കുക നിങ്ങളുടെ സഹോദരിയോ സഹോദരനോ ബന്ധുവോ അമ്മയോ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പോകുന്നുണ്ടോ പുരോഹിതൻ നിങ്ങളെക്കുറിച്ച് എന്താണ് പറയാൻ പോകുന്നത് എന്താണ് ആ ബോസ് അല്ലെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകൻ നിങ്ങളെക്കുറിച്ച് പറയുമോ ഇത് സങ്കൽപ്പിക്കുക തുടർന്ന് ഇവ ഓരോന്നിനും കുറഞ്ഞത് രണ്ടോ മൂന്നോ വാക്യങ്ങളെങ്കിലും എഴുതുക എനിക്ക് നഷ്ടപ്പെട്ട അത്രയും സ്നേഹമുള്ള മകനാണെന്ന് പിതാവ് പറയുമോ അത്തരമൊരു ഭർത്താവിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്ന് ഭാര്യ പറയുമോ ഞാൻ അവന്റെ ഓർമ്മയിൽ എന്നെന്നേക്കുമായി ജീവിക്കാൻ പോകുന്നു അല്ലെങ്കിൽ മോശം ചവറ്റുകുട്ടയിൽ നിന്ന് നല്ല മോചനം എന്ന് അവൾ പറയുമോ അദ്ദേഹം അന്തരിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് ബോസ് എന്ത് പറയും അദ്ദേഹം അത്തരമൊരു ഉറച്ച നിലപാടായിരുന്നു മുഴുവൻ കമ്പനിയോടും അദ്ദേഹം സമൂഹത്തെ മാറ്റാൻ നിരവധി കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു അല്ലെങ്കിൽ ബോസ് പറയുന്നു ഇല്ല അദ്ദേഹം അന്തരിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് അദ്ദേഹം കമ്പനിക്ക് ഇത്രയും വലിയ ബാധ്യതയായിരുന്നു അപ്പോൾ ആ സുഹൃത്ത് എന്തു പറയും എനിക്ക് സഹായം ആവശ്യമുള്ളപ്പോഴെല്ലാം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറയുമോ എന്നെ പിന്തുണയ്ക്കാൻ എനിക്ക് ഉണ്ടായിരുന്ന ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹം അത് പറയാൻ പോകുന്നുണ്ടോ അവൻ ഒരു വഞ്ചകനായിരുന്നു എനിക്ക് അവനെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നിങ്ങളുടെ മരണശേഷം ഈ ആളുകൾ എന്തെല്ലാം വാക്കുകൾ പറയാൻ പോകുന്നു നന്നായി അറിയുന്നവരാണ് അവർ പറയാൻ പോകുന്നത് നിങ്ങൾ കേൾക്കാൻ പോകുന്നില്ല മറിച്ച് അവർ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ അതിനെക്കുറിച്ച് പറയുമോ ഇപ്പോൾ അത് ശരിയെന്ന് സങ്കൽപ്പിക്കുക ദൃശ്യവൽക്കരിക്കുക തുടർന്ന് നിങ്ങൾ എങ്ങനെ ചെയ്യുമെന്ന് ആസൂത്രണം ചെയ്യുക ഈ ആളുകൾ നിങ്ങളെക്കുറിച്ച് പറയാൻ പോകുന്ന കാര്യങ്ങൾക്കനുസൃതമായി നിങ്ങളുടെ ജീവിതം നയിക്കുക ഇതാണ് യഥാർത്ഥത്തിൽ സ്റ്റീഫൻ കോവെ പുസ്തകത്തിൽ വിവരിക്കുന്നത് അതായത് വളരെ ഫലപ്രദമായ ആളുകളുടെ ഏഴ് ശീലങ്ങൾ അവസാനം മനസ്സിൽ വെച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഈ ശീലം നിങ്ങൾ വളർത്തിയെടുക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറയുന്നു മനസ്സിൽ അവസാനത്തോടെ ആരംഭിക്കുക അതിനാൽ എല്ലായ്പ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ വളരെ ഹ്രസ്വദൃഷ്ടിയോടെ ആരംഭിക്കുന്നു സമീപിക്കുകയും അവസാനം എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ സങ്കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നു അതിനാൽ അവസാനം മനസ്സിൽ വെച്ചുകൊണ്ട് ആരംഭിക്കുക നിങ്ങൾ ഈ സാഹചര്യം വിഭാവനം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് എഴുത്തുകാരൻ പറയുന്നത് ചിന്തിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് ഇവ ഓരോന്നും നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തെയും കുറിച്ച് ഞങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഏതുതരം ഭർത്താവോ ഭാര്യയോ അച്ഛനോ അമ്മയോ ആയിരിക്കും അവരുടെ വാക്കുകൾ പ്രതിഫലിപ്പിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്തുതരം മകനോ മകളോ കസിൻസോ എന്തുതരം സുഹൃത്ത് എന്തുതരം ജോലി അസോസിയേറ്റ് അവർ നിങ്ങളിൽ എന്ത് സ്വഭാവം കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ത് സംഭാവനകൾ അവർ ഏതൊക്കെ നേട്ടങ്ങൾ ഓർമ്മിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ ശ്രദ്ധാപൂർവ്വം നോക്കുക അവരുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ ചിന്തയെ മറ്റൊരു പ്രശസ്ത വ്യക്തിത്വവുമായി ബന്ധിപ്പിക്കാൻ പോകുന്നു അത് സ്റ്റീവ് ജോബ്സ് ആണെന്ന് എല്ലാവർക്കും അറിയാം തുടർന്ന് അദ്ദേഹം തൻറെ ഏറ്റവും പ്രശസ്തമായ പ്രസംഗം നടത്തിയത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി പ്രാരംഭ വിലാസങ്ങളിലൊന്നിൽ അതിനാൽ ഇത് ഇപ്പോൾ ജനപ്രിയമാണ് സ്റ്റീവ് ജോബ്സിന്റെ പ്രാരംഭ വിലാസം എന്ന് വിളിക്കുന്നു നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ ഗൂഗിൾ ചെയ്യാം പ്രസംഗം മുഴുവൻ നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ലിങ്ക് ഇവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്കും ലിങ്ക് ഉപയോഗിക്കാം പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് ഇത് ഗൂഗിൾ ചെയ്യാനും കഴിയും അത് വളരെ പ്രശസ്തമാണ് നിങ്ങൾക്ക് അത് ഉടൻ തന്നെ ലഭിക്കും ഇപ്പോൾ ആ പ്രസംഗത്തിൽ നിന്ന് ഞാൻ രണ്ടെണ്ണം ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു സ്റ്റീവ് ജോബ്സ് ഇതിൽ നിന്നാണ് വ്യക്തമായി സംസാരിക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന മൂന്ന് പ്രധാന പോയിന്റുകൾ എന്തോ ഒന്നിൽ നിന്ന് ആരംഭിക്കുന്നതും എന്നാൽ അവസാനം മനസ്സിൽ വെച്ചിരിക്കുന്നതുമായ കാഴ്ചപ്പാട് വായിക്കാൻ യോഗ്യമായ പ്രസംഗത്തിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ വെറുതെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് വായിക്കുക ഞാൻ ഉടൻ മരിക്കുമെന്ന് ഓർമ്മിക്കുന്നത് ജീവിതത്തിലെ വലിയ തിരഞ്ഞെടുപ്പുകൾ നടത്താൻ എന്നെ സഹായിക്കുന്നതിന് ഞാൻ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം കാരണം മിക്കവാറും എല്ലാം എല്ലാ ബാഹ്യ പ്രതീക്ഷകളും എല്ലാ അഹങ്കാരവും ലജ്ജയെക്കുറിച്ചുള്ള എല്ലാ ഭയവും അല്ലെങ്കിൽ പരാജയം ഈ കാര്യങ്ങൾ മരണത്തിന്റെ മുൻപിൽ പിന്തുടരുന്നു ഓർക്കുക സ്റ്റീവ് ജോബ്സ് ഈ തുടക്കം നൽകുമ്പോൾ താൻ ക്യാൻസർ ബാധിതനാണെന്ന് അറിയാമായിരുന്നെങ്കിലും താൻ അങ്ങനെ ചെയ്യുമെന്ന് അദ്ദേഹം അപ്പോഴും പ്രതീക്ഷിച്ചിരുന്നു അത് വളരെ മോശമാണെന്ന് ഡോക്ടർ പറഞ്ഞതിനാൽ അതിജീവിച്ചു പക്ഷേ ഇപ്പോഴും ഒരു മാന്യമായ സാധ്യതയുണ്ട് അതിജീവിക്കുക അതിനാൽ അദ്ദേഹത്തിന് ഉറപ്പില്ലായിരുന്നു പക്ഷേ മരണം തനിക്ക് നൽകിയിരിക്കുന്നു എന്ന മാനസികാവസ്ഥ അദ്ദേഹത്തിനുണ്ടായിരുന്നു അതനുസരിച്ച് തൻ്റെ ജീവിതം പുനരവലോകനം ചെയ്യാൻ തുടങ്ങി അതുകൊണ്ടാണ് കാര്യങ്ങൾ വെറുതെ ഇല്ലാതാകുന്നുവെന്ന് അദ്ദേഹം പറയുന്നത് മരണമുഖം യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ടത് മാത്രം അവശേഷിക്കുന്നു നിങ്ങൾ മരിക്കാൻ പോകുകയാണെന്ന് ഓർമ്മിക്കുന്നത് ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടെന്ന് ചിന്തിക്കുന്ന കെണി നാമെല്ലാവരും 300 വർഷം 500 വർഷം അല്ലെങ്കിൽ എന്നെന്നേക്കുമായി ജീവിക്കാൻ പോകുന്നതുപോലെ ഒരു ജീവിതം നയിക്കുന്നു പക്ഷേ നമ്മൾ തെരുവ് മരണത്തിന്റെ ഏത് മൂലയാണ് കാത്തിരിക്കുന്നതെന്ന് ഒരിക്കലും അറിയില്ല സ്റ്റീവ് ജോബ്സ് പറയുന്നത് ഇതാണ് നിങ്ങൾ ആ വശം മനസ്സിൽ എടുക്കുന്ന നിമിഷം മരണം ആസന്നമാണ് ജീവിതം കൂടുതൽ അർത്ഥവത്തായിത്തീരുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങും പ്രസക്തമായ കാര്യങ്ങൾ നിങ്ങൾ ഇതിനകം നഗ്നനാണ് നിങ്ങളുടെ ഹൃദയത്തെ പിന്തുടരാതിരിക്കാൻ ഒരു കാരണവുമില്ല ആരും മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല സ്വർഗ്ഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പോലും മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നിട്ടും നാമെല്ലാവരും പങ്കിടുന്ന ലക്ഷ്യസ്ഥാനമാണ് മരണം ആരും അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല അത് അങ്ങനെയായിരിക്കണം കാരണം മരണം വളരെ വലുതാണ് ഒരുപക്ഷേ ജീവിതത്തിലെ ഏറ്റവും മികച്ച കണ്ടുപിടുത്തം അത് ജീവിതത്തിന്റെ മാറ്റത്തിന്റെ ഏജന്റാണ് പുതിയതിന് വഴിയൊരുക്കാൻ ഇത് പഴയതിനെ ശുദ്ധീകരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ പുതുമുഖമാണ് എന്നാൽ ഒരു ദിവസം വളരെ അകലെയല്ല നിങ്ങൾ ക്രമേണ പഴയതായി മാറുകയും നീക്കം ചെയ്യപ്പെടുകയും ചെയ്യും വളരെ നാടകീയമായതിൽ ക്ഷമിക്കണം പക്ഷേ ഇത് തികച്ചും സത്യമാണ് അപ്പോൾ അദ്ദേഹം ഏറ്റവും ധനികനായിത്തീർന്നുവെന്ന് നിങ്ങൾക്കറിയാം എന്നാൽ സെമിത്തേരിയിലെ ഏറ്റവും ധനികനായ വ്യക്തി എന്നത് പ്രശ്നമല്ലെന്ന് അദ്ദേഹം പറയുന്നു ഞങ്ങൾ ഒരു അത്ഭുതകരമായ കാര്യം ചെയ്തുവെന്ന് പറഞ്ഞ് രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നു അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് നിങ്ങളുടെ ജോലി നിങ്ങളുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം നിറയ്ക്കാൻ പോകുന്നു യഥാർത്ഥത്തിൽ സംതൃപ്തനാകാനുള്ള ഏക മാർഗ്ഗം മഹത്തായ ജോലിയാണെന്ന് നിങ്ങൾ കരുതുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് മഹത്തായ ജോലി ചെയ്യാനുള്ള ഏക മാർഗം നിങ്ങൾ ചെയ്യുന്നതെന്താണോ അതിനെ സ്നേഹിക്കുക എന്നതാണ് മഹത്തായ ജോലി ചെയ്യാനുള്ള ഏക മാർഗം നിങ്ങൾ ചെയ്യുന്നതെന്താണോ അതിനെ സ്നേഹിക്കുക എന്നതാണ് നിങ്ങൾ ഇതുവരെ അത് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ തിരയുന്നത് തുടരുക ഒത്തുതീർപ്പാക്കരുത് ഇപ്പോൾ ഈ കോഴ്സിന്റെ ലക്ഷ്യങ്ങളിലൊന്ന് നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ടെന്ന് നിങ്ങളെ മനസ്സിലാക്കുക എന്നതാണ് അത് കണ്ടെത്തുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാകൂ അത് നേടുന്നതിന് നിങ്ങൾ കഴിവുകളും നിങ്ങളുടെ വ്യക്തിത്വവും വികസിപ്പിക്കേണ്ടതുണ്ട് കൂടാതെ ഈ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നതുപോലെ നിങ്ങൾ എന്തെങ്കിലും വിശ്വസിക്കണം നിങ്ങളുടെ ഗട്ട് വിധി ജീവിതം കർമ്മം എന്തായാലും ഈ സമീപനം എന്നെ ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ല നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ മുമ്പത്തെ മൊഡ്യൂൾ നിങ്ങൾക്ക് കോഴ്സിൽ വിശ്വാസമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുകയായിരുന്നു നിങ്ങൾക്ക് അതിൽ വിശ്വാസമുണ്ട് പരിശീലകൻ നിങ്ങൾ പ്രതികൂലമായി പ്രതികരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം സംശയങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയാൽ എനിക്ക് അത് ചെയ്യാൻ കഴിയുമോ എനിക്ക് ഇത് നേടാൻ കഴിയുമോ അപ്പോൾ നിങ്ങൾക്ക് അധികം പുരോഗതി കൈവരിക്കാനാവില്ല വാസ്തവത്തിൽ പഠനത്തിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷം അതായത് ഏതെങ്കിലും അധ്യാപകനോടുള്ള വിദ്വേഷമോ നിഷേധാത്മകമോ ആയ വികാരങ്ങൾ ഒരു പരിശീലകനും ചെയ്യാൻ പോകുന്നില്ല നിങ്ങളെ സഹായിക്കുക നിങ്ങൾ വിശ്വാസം വികസിപ്പിക്കേണ്ടതുണ്ട് ഈ കോഴ്സ് ശരിയാണെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം എന്നെ മാറ്റാൻ പോകുന്നു ഈ ഇൻസ്ട്രക്ടർ എന്നെ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നു ഇപ്പോൾ സ്റ്റീവ് ജോബ്സ് പറയുന്നത് മറ്റൊരു രീതിയിലാണ് എന്തെങ്കിലും വിശ്വസിക്കുക അത് നിങ്ങളുടെ കർമ്മമാകാം അതിനാൽ അത് നിങ്ങളുടെ ആന്തരിക വികാരമാകാം എന്ന് അദ്ദേഹം പറയുന്നു ഇത് ഇതുപോലുള്ള ഒരു കോഴ്സായിരിക്കാം വിശ്വസിക്കുക സ്റ്റീവ് ജോബ്സ് ചെയ്യുന്ന മറ്റൊരു കാര്യം അദ്ദേഹം തൻറെ കണ്ണാടിയിൽ ഒരുതരം നോട്ട് ഇട്ടിരുന്നു എന്നതാണ് എല്ലാ ദിവസവും അവൻ പോകുമ്പോൾ ഈ കുറിപ്പ് നോക്കുകയും തുടർന്ന് അത് ഉണ്ടാക്കുകയും ചെയ്യുകയായിരുന്നു അതനുസരിച്ചുള്ള മാറ്റങ്ങൾ പിന്നെ എന്താണ് ഈ കുറിപ്പ് ഇന്ന് എന്റെ ജീവിതത്തിലെ അവസാന ദിവസമായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതിനാൽ ഈ ചോദ്യം ചോദിക്കുമ്പോഴെല്ലാം താൻ ചെയ്യേണ്ട നിരവധി കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കി അത് യഥാർത്ഥത്തിൽ അപ്രസക്തമാണ് അദ്ദേഹം അത് ചെയ്യാൻ പാടില്ല ഇന്ന് ആ അവസാന ദിവസമായിരുന്നെങ്കിൽ താൻ അത് ചെയ്യണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി അവൻ യഥാർത്ഥത്തിൽ ചെയ്യാൻ ആലോചിച്ച കാര്യമല്ലാതെ മറ്റെന്തെങ്കിലും അവൻ മാറ്റി അവൻ ഉണ്ടാക്കി ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ ജീവിതം വളരെ ഗുണപരമായിരുന്നു നിങ്ങൾ എന്തെങ്കിലും ആരംഭിക്കാൻ പോകുമ്പോൾ അതേ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ഇത് ഉയർന്ന മൂല്യമുള്ളതാണോ അതോ കുറഞ്ഞ മൂല്യമുള്ളതാണോ എന്ന് നോക്കുക അല്ലെങ്കിൽ ഒരു വിലയുമില്ല അതിന് ഒരു വിലയുമില്ലെന്നും അതിൽ ഒരു മാറ്റവും വരുത്താൻ പോകുന്നില്ലെന്നും നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൊത്തത്തിലുള്ള വ്യക്തിത്വം മൊത്തത്തിലുള്ള കരിയർ മൊത്തത്തിലുള്ള ജീവിതം അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതാണ് നല്ലത് അങ്ങനെ ചെയ്യുന്നത് ഒഴിവാക്കുക ആത്യന്തിക സമയങ്ങളിൽ നിങ്ങൾ അത് ചെയ്യുന്നത് പൂർണ്ണമായും നിർത്തുന്നു ഇപ്പോൾ രണ്ട് ഉദാഹരണങ്ങളിലും സ്റ്റീഫൻ കോവിയിൽ നിന്ന് ഞാൻ നൽകിയ ഉദാഹരണം ശവപ്പെട്ടിയിൽ കിടക്കുന്ന വ്യക്തിയുടെ ദൃശ്യവൽക്കരണം അത് നിങ്ങളാണ് തുടർന്ന് നിങ്ങൾക്ക് ചുറ്റുമുള്ള നാല് പ്രധാന ആളുകൾ പിന്നെ അവർ നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ ആശ്രയിച്ച് നല്ല കാര്യങ്ങളോ ചീത്ത കാര്യങ്ങളോ പറയാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉദാഹരണം വളരെ അടുത്ത ബന്ധമുള്ള രണ്ടാമത്തേത് യഥാർത്ഥ മരണമാണ് അത് പിന്നീട് സ്റ്റീവ് ജോബ്സിന് സംഭവിച്ചു പക്ഷേ പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള സൃഷ്ടിപരമായ ദൃശ്യവൽക്കരണം ഉണ്ടായിരുന്നു അത് വരാനിരിക്കുന്നതും പ്രധാനപ്പെട്ടതുമായിരുന്നു വളരെ ഗുണപരമായ ജീവിതം നയിക്കാൻ അദ്ദേഹത്തെ സഹായിച്ച അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലെ മാറ്റങ്ങളും പരിഷ്ക്കരണങ്ങളും അവന് ആ തിരിച്ചറിവ് ലഭിച്ച നിമിഷം ഇപ്പോൾ നമ്മുടെ പശ്ചാത്തലത്തിൽ ഈ ലക്ഷ്യം നിങ്ങൾ എങ്ങനെ ദൃശ്യവൽക്കരിക്കുന്നു അവസാനം നമ്മൾ എങ്ങനെ സങ്കൽപ്പിക്കും ഞാൻ നിങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുന്നു ഒന്ന്ഃ ഒരു വ്യക്തമായ അർത്ഥം തീർച്ചയായും മരണമാണ് ഇരുവരും വിവരിക്കുന്നു അത് മരണമാണ് നിങ്ങൾ മരണത്തെ സങ്കൽപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതം കൂടുതൽ മികച്ചതാക്കാൻ കഴിയും അർത്ഥവത്തായ എന്നാൽ അതിനർത്ഥം നമ്മുടെ ഉദ്ദേശ്യം നാം നിർണ്ണയിക്കണം അത് വെറുതെയല്ല നമുക്ക് ഒരു ജീവിതമുണ്ടെന്ന് തിരിച്ചറിയുകയും എന്നാൽ നമ്മുടെ ഉദ്ദേശ്യവും നാം നിർണ്ണയിക്കേണ്ടതുണ്ട് അതിനർത്ഥം നമ്മുടെ ഉദ്ദേശ്യം നാം നിർണ്ണയിക്കണം അർത്ഥം ജീവിതത്തിൽ ദൌത്യവും മരണത്തിനുമുമ്പ് ഫലപ്രദമായ ജീവിതം നയിക്കുന്നതും നമ്മെ അറിയാതെ പിടികൂടുന്നു നമുക്ക് അവസാനം വ്യാഖ്യാനിക്കാൻ കഴിയുന്ന മറ്റ് വഴികൾഃ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ എന്താണ് ഈ വീഡിയോയുടെ അവസാനം ചെയ്യാൻ പോകുകയാണോ കോഴ്സിന്റെ അവസാനം ഇതിന് ശേഷം നിങ്ങൾ എന്തുചെയ്യും കോഴ്സ് അവസാനിച്ചോ ആ ഗതി നിങ്ങളുടെ ജീവിതവുമായി എങ്ങനെ സംയോജിപ്പിക്കാൻ പോകുന്നു നിങ്ങളുടെ കരിയറിന്റെ അവസാനംഃ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കരിയർ അവസാനിപ്പിക്കുന്നുണ്ടോ നിങ്ങളുടെ കോളേജിൽ അതോ നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് ഒരു പുതിയ കരിയർ ആരംഭിക്കാൻ പോകുകയാണോ ഒരു പുതിയ ജോലി അല്ലെങ്കിൽ ഒരു ജോലിയുടെ അവസാനം പുതിയ സ്ഥാനമോ സ്ഥാനക്കയറ്റം ഉയർന്ന തസ്തിക മേഖലകളിലെയും മേഖലകളിലെയും മാറ്റം തുടങ്ങിയവ ദൃശ്യവൽക്കരിക്കുക സങ്കൽപ്പിക്കുക അത് അവസാനിപ്പിക്കുകയും നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് വളരെ അർത്ഥപൂർണ്ണമാക്കുകയും ചെയ്യുക ഒരുപക്ഷേ അത് ദിവസത്തിന്റെ അവസാനമാകുമോ ദിവസാവസാനം നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ പ്രത്യേകിച്ചും ഈ വീഡിയോ അവസാനം കാണുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ആഴ്ചാവസാനം മാസാവസാനം സ്വയം ചോദിക്കുക 5 വർഷത്തിനുശേഷം നിങ്ങൾ എന്തുചെയ്യും 10 വർഷത്തിനുശേഷം നിങ്ങൾ എന്തുചെയ്യും 15 വർഷത്തിനുശേഷം നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് 25 വർഷത്തിനുശേഷം നിങ്ങൾ എന്തുചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യാൻ നിങ്ങൾ പദ്ധതിയിടുന്നത് ഇപ്പോൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുക ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങളും ലക്ഷ്യങ്ങളും സജ്ജമാക്കുക ഇപ്പോൾ മുതൽ 5 വർഷം കഴിഞ്ഞ് എനിക്ക് വേണം അങ്ങനെ ആകണമെങ്കിൽ 15 വർഷം കഴിഞ്ഞ് ഞാൻ ഇവിടെയുണ്ടാകും ഇപ്പോൾ മുതൽ 25 വർഷം കഴിഞ്ഞ് എന്നെ അങ്ങനെ വിളിക്കും എന്റെ മരണസമയത്ത് ഞാൻ എന്റെ ശവപ്പെട്ടിയിൽ കിടക്കുമ്പോൾ ഈ സംഭാഷണങ്ങൾ ആളുകൾ എന്നെക്കുറിച്ച് പറയും എനിക്ക് ഉറപ്പാണ് ഇപ്പോൾ നിങ്ങൾക്ക് അത് ലഭിച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അർത്ഥമുണ്ടാക്കുകയും മാറ്റം വരുത്തുകയും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും നിങ്ങൾ ശ്രമിക്കുന്നു ഈ കോഴ്സിന്റെ അവസാനം നിങ്ങൾ എന്താണ് ചെയ്യാൻ പദ്ധതിയിട്ടിരിക്കുന്നത് ബിരുദവും ബിരുദാനന്തര ബിരുദവും കഴിഞ്ഞാൽ നിങ്ങൾ എന്തുചെയ്യും 5 വർഷം 10 വർഷം 15 വർഷം 25 വർഷം എന്നിവയ്ക്ക് ശേഷം നിങ്ങൾ എവിടെയായിരിക്കും നിങ്ങളുടെ ആജീവനാന്ത ദൌത്യം എന്താണ് ചെറുതും നേടിയെടുക്കാവുന്നതുമായ രീതിയിൽ അതിനെ വിഭജിക്കുന്നതിലൂടെ നിങ്ങൾ എന്താണ് ദൃശ്യവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നത് സ്വയം യാഥാർത്ഥ്യബോധമുള്ള ഒരു വ്യക്തിയെന്ന നിലയിൽ നിങ്ങൾ ഒടുവിൽ എന്തായിരിക്കും ഈ സ്വയം യാഥാർത്ഥ്യമാക്കൽ എന്താണെന്ന് ഞാൻ ഒരു മുഴുവൻ വീഡിയോയും ചെലവഴിക്കാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങളെ സ്വയം യാഥാർത്ഥ്യബോധമുള്ള വ്യക്തിയാക്കുന്നത് എന്താണ് എന്നാൽ ഇപ്പോൾ ആ ചിന്ത പാർക്ക് ചെയ്യുക ഇതിലേക്ക് തിരിച്ചുവരും എന്നാൽ ഈ കോഴ്സിന്റെ ലക്ഷ്യം സുഗമമാക്കുക നിങ്ങൾക്ക് അത് നൽകുക എന്നതാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വയം യാഥാർത്ഥ്യബോധമുള്ള വ്യക്തിയാകുന്ന അന്തരീക്ഷം നിങ്ങൾക്ക് കഴിയുന്നത് ആകാൻ നിങ്ങൾക്ക് കഴിയണം വളരെ ഹ്രസ്വമായ വാക്കുകളിൽ കൂടാതെ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സ്റ്റീവ് ജോബ്സിൻ്റെ മറ്റൊരു ചിന്തയോടെ നമുക്ക് അവസാനിപ്പിക്കാം അദ്ദേഹം പറയുന്നു പ്രപഞ്ചത്തിൽ ഒരു ദ്വാരം സ്ഥാപിക്കാനാണ് നമ്മൾ ഇവിടെയുള്ളത് അല്ലാത്തപക്ഷം എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ ഇവിടെയാണെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആവശ്യമാണ് പ്രപഞ്ചത്തിൽ ഒരു ദ്വാരം ഉണ്ടാക്കാൻ നിങ്ങളുടെ കാൽപ്പാടുകൾ പ്രപഞ്ചത്തിൽ അനുഭവപ്പെടേണ്ടതുണ്ട് നിങ്ങൾ തരംഗങ്ങൾ സൃഷ്ടിക്കുകയും ഒരു സ്വാധീനം ചെലുത്തുകയും വേണം ഇപ്പോൾ നിങ്ങൾ എങ്ങനെ ആ സ്വാധീനം ചെലുത്താൻ പോകുന്നു അതിനെക്കുറിച്ച് ചിന്തിക്കുക വരാനിരിക്കുന്ന വീഡിയോയിൽ ഈ ചിന്തയോടെ തുടരും